എഞ്ചിനീയർമാർക്കുള്ള ഡാറ്റാ സയൻസ് കോഴ് സിലെ ആർ മൊഡ്യൂളിന്റെ - 3 പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ ആർലെ വേരിയബിളുകൾക്ക് പേരിടുന്ന നിയമങ്ങൾ ഞങ്ങൾ കാണാൻ പോകുന്നു കൂടാതെ ആർ ൽ ലഭ്യമായ അടിസ്ഥാന ഡാറ്റാ തരങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ കാണാൻ പോകുന്നു രണ്ട് അടിസ്ഥാന ആർ ഒബ് ജക്റ്റുകൾ വെക്റ്ററുകളും ലിസ്റ്റുകളും വിശദമായി ആദ്യം R ലെ വേരിയബിളുകൾ നാമകരണം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ നമുക്ക് നോക്കാം R ലെ വേരിയബിൾ നാമം അടിവരയും കാലഘട്ടവും ഒഴികെ ആൽഫാന്യൂമെറിക് പ്രതീകങ്ങളായിരിക്കണം വേരിയബിൾ പേരുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പ്രത്യേക പ്രതീകങ്ങൾ വേരിയബിൾ നാമം എല്ലായ്പ്പോഴും ഒരു അക്ഷരമാല ഉപയോഗിച്ച് ആരംഭിക്കേണ്ടതുണ്ട് അടിവരയും കാലഘട്ടവും ഒഴികെയുള്ള മറ്റ് പ്രത്യേക പ്രതീകങ്ങളൊന്നും വേരിയബിൾ പേരുകളിൽ അനുവദനീയമല്ല ആർ ൽ ഉപയോഗിക്കാൻ കഴിയുന്ന ശരിയായ വേരിയബിൾ പേരുകളുടെ ചില ഉദാഹരണങ്ങൾ ഇത് കാണിക്കുന്നു ആദ്യത്തേത് b2 7 വേരിയബിൾ b2 ലേക്ക് 7 ന്റെ മൂല്യം നൽകുന്നു ഇത് സാധുവായ വേരിയബിൾ നാമമാണ് കാരണം ഇത് അക്ഷരമാലയിൽ നിന്നാണ് ആരംഭിച്ചത് ഇതിന് ആൽഫാന്യൂമെറിക് പ്രതീകങ്ങൾ മാത്രമേയുള്ളൂ അതുപോലെ രണ്ടാമത്തെ വേരിയബിൾ Manoj GDPL scientist ഇതും സാധുവായ വേരിയബിൾ നാമമാണ് കാരണം ഇതിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് പക്ഷേ ഇത് അടിവരയിടുന്നു ഇത് വേരിയബിൾ നാമങ്ങൾക്ക് പ്രത്യേക സ്വഭാവം അനുവദിച്ചിരിക്കുന്നു വേരിയബിൾ നാമങ്ങൾ വേരിയബിൾ 2b 7 ശരിയല്ലാത്ത ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഒരു പിശക് നൽകുന്നു കാരണം ആ വേരിയബിൾ നാമം ആരംഭിച്ചത് സംഖ്യാ പ്രതീകത്തോടെയാണ് അത് ആർ വേരിയബിളുകളുടെ പേരുകൾക്കായുള്ള നിയമങ്ങൾ പാലിക്കുന്നില്ല Pi അക്ഷരങ്ങൾ പോലുള്ള മുൻ നിശ്ചയിച്ച ചില സ്ഥിരാങ്കങ്ങളും R ൽ അടങ്ങിയിരിക്കുന്നുഅതായത് pi a മുതൽ z വരെയും അപ്പർകേസ് അക്ഷരങ്ങളായ A മുതൽ Z വരെയും അക്ഷരങ്ങളുംഒരു വർഷത്തിൽ മാസങ്ങൾ നിങ്ങൾക്ക് മാസ ഡോട്ട് നാമമനുസരിച്ച് മുഴുവൻ മാസനാമവും ഉണ്ടായിരിക്കാം കൂടാതെ മാസ ഡോട്ട് ചുരുക്കെഴുത്ത് ടൈപ്പുചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചുരുക്കെഴുത്ത് മാസനാമങ്ങൾ ഉണ്ടാകാം ആർ ൽ ലഭ്യമായ ഡാറ്റ തരങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം R ന് ഇനിപ്പറയുന്ന അടിസ്ഥാന ഡാറ്റ തരങ്ങളുണ്ട് കൂടാതെ ഓരോ ഡാറ്റാ തരത്തിനും എടുക്കാൻ കഴിയുന്ന ഡാറ്റ തരവും മൂല്യങ്ങളും ഈ ലിസ്റ്റ് കാണിക്കുന്നു അതിനാൽ R ന് ലോജിക്കൽ ഡാറ്റ തരങ്ങളുണ്ട് അത് ട്രൂ അഥവാ ഫാൾസ് ആയ മൂല്യം എടുക്കുന്നു എല്ലാ യഥാർത്ഥ സംഖ്യകളുടെയും സജ്ജമായ എല്ലാ സംഖ്യകളുടെയും സംഖ്യയുടെയും കൂട്ടമായ പൂർണ്ണ ഡാറ്റ തരങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നു സങ്കീർണ്ണമായ വേരിയബിളുകൾ നിർവചിക്കാനും കഴിയും എല്ലാ സങ്കീർണ്ണ സംഖ്യകളുടെയും കൂട്ടം R പിന്തുണയ്ക്കുന്നു കൂടാതെ നിങ്ങൾക്ക് എല്ലാം ഉള്ള ഒരു പ്രതീക ഡാറ്റ തരം ഞങ്ങൾക്ക് ലഭിക്കും അടിസ്ഥാന ഡാറ്റാ തരം പ്രതീകങ്ങളുടെ വിൻഡോയ്ക്ക് കീഴിലുള്ള അക്ഷരമാലകളും പ്രത്യേക പ്രതീകങ്ങളും ഡാറ്റ തരങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന നിരവധി ജോലികൾ ഉണ്ട് ഇനിപ്പറയുന്ന ലിസ്റ്റ് നിങ്ങൾക്ക് ടാസ് ക് പ്രവർത്തനവും ചുമതല നിർവഹിക്കുന്നതിനുള്ള വാക്യഘടനയും നൽകുന്നു ഉദാഹരണത്തിന് ഒബ്ജക്റ്റിന്റെ ഡാറ്റ തരം കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ ചുമതല ഡാറ്റാ തരം ഒബ് ജക്റ്റ് കണ്ടെത്താൻ നിങ്ങൾ ഫംഗ്ഷൻ type ഉപയോഗിക്കണം അതിനുള്ള വാക്യഘടന ഒരു ഒബ്ജക്റ്റിന്റെ ഡാറ്റാ തരം കണ്ടെത്തുന്നതിന് ഫംഗ്ഷൻ type ലേക്ക് നിങ്ങൾ ഒബ് ജക്റ്റ് കൈമാറേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമത്തെ ടാസ്ക് ഒബ്ജക്റ്റ് ചില ഡാറ്റ തരത്തിലാണോയെന്ന് പരിശോധിക്കുക എന്നതാണ് അത് ചെയ്യുന്നതിന് നിങ്ങൾ ഒരു കമാൻഡായി ഡാറ്റാ തരത്തിന് മുമ്പായി ഡോട്ട് ആണ് പ്രിഫിക് സ് ചെയ്യേണ്ടത് അതിനുള്ള വാക്യഘടന നിങ്ങൾ പരിശോധിക്കേണ്ട ഒബ്ജക്റ്റിന്റെ ഡാറ്റ തരം ആണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേരിയബിൾ a ഉണ്ടെങ്കിൽ അത് ഒരു സംഖ്യയായി നിർവചിക്കപ്പെടുന്നു നിങ്ങൾ ഈ കമാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു is integer അത് യഥാർത്ഥത്തിൽ ട്രൂ കാണിക്കും വേരിയബിൾ a സംഖ്യയായി നിർവചിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് ഫാൾസ് കാണിക്കുകയും മൂന്നാമത്തെ ടാസ് ക് രസകരമായ ജോലിയാണ് അവിടെ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഡാറ്റാ തരം മറ്റൊന്നിലേക്ക് മാറ്റാനോ പരിവർത്തനം ചെയ്യാനോ കഴിയും കമാൻഡ് ആയി ഡാറ്റാ തരത്തിന് മുമ്പ് നിങ്ങൾ as ആയി ഉപയോഗിക്കേണ്ട ഈ പ്രവർത്തനം നടത്തുക അത് ചെയ്യുന്നതിനുള്ള വാക്യഘടന നിങ്ങൾ നിർബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഡോട്ട് ഡാറ്റ തരം പോലെയാണ് എല്ലാ നിർബന്ധിതരും സാധ്യമല്ലെന്നും അത് ശ്രമിച്ചതും ഒരു അസാധുവായ മൂല്യം തിരികെ നൽകുമെന്നും ശ്രദ്ധിക്കുക ചുവടെയുള്ളത് ചെയ്യുന്നതിന് സാമ്പിൾ കോഡുകൾ ഉണ്ട് ആദ്യത്തേത് 1 തരം അതിനാൽ 1 ഒരു സംഖ്യാ വേരിയബിളാണ് അതിനാൽ നിങ്ങൾ പറഞ്ഞാൽ തരം നിങ്ങൾക്ക് ഇരട്ടി ലഭിക്കും സംഖ്യാ വേരിയബിളും നിങ്ങൾ പറഞ്ഞാൽ 22 1 2001 അച്ചടിച്ച ഒരു സ്ട്രിംഗിന്റെ തരം അത് പ്രതീകമായി മൂല്യം നൽകും ഇപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കാൻ പോകുകയാണെങ്കിൽ 21 11 2001 സൃഷ്ടിച്ച പ്രതീക വേരിയബിൾ ഈ ക്യാരക്ടർ വേരിയബിളാണ് നിങ്ങൾക്ക് ഈ കമാൻഡ് ഉപയോഗിക്കാൻ കഴിയും is character ഫലം ശരിയാണ് കാരണം നിങ്ങൾ ഇത് ഒരു ക്യാരക്ടർ വേരിയബിളായി നിർവചിച്ചിരിക്കുന്നു അടുത്ത ഉദാഹരണം ഇവിടെ നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ക്യാരക്ടർ വേരിയബിളിനെ നിർബന്ധിക്കുന്നു അത് നേരത്തെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അത് 22 11 2001 ഡേറ്റ് ടൈപ്പ് ആയി നിർവചിക്കപ്പെടുന്നു തുടർന്ന് ആ തീയതി ക്യാരക്ടർ വേരിയബിൾ ആണോ എന്ന് പരിശോധിക്കുന്നു ഫലം തെറ്റാണ് കാരണം നിങ്ങൾ ഈ ക്യാരക്ടർ വേരിയബിളിനെ ഒരു തീയതിയായി മാറ്റുമ്പോൾ അത് ഒരു സംഖ്യാ വേരിയബിളായിരിക്കും ഈ വേരിയബിൾ ഒരു ക്യരക്ടറാണോ എന്ന് ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഫലം തെറ്റായിരിക്കും complex ഉപയോഗിച്ച് നിങ്ങൾക്ക് ന്യൂമെറിക് വേരിയബിളിനെ കോംപ്ലക്സായി വേരിയബിളിലേക്ക് മാറ്റുവാൻ കഴിയും അതിനാൽ ഉദാഹരണത്തിന് ഞങ്ങൾക്ക് 2 ന്റെ ഡോട്ട് കോംപ്ലക്സായി ഉണ്ട് ഈ സംഖ്യാ വേരിയബിൾ 2 കോംപ്ലക്സായി വേരിയബിൾ 2 0i ലേക്ക് പരിവർത്തനം ചെയ്യും ഇപ്പോൾ ഈ കമാൻഡ് ഉപയോഗിച്ച് ഒരു സംഖ്യാ വേരിയബിളിലേക്ക് ഒരു ക്യാരക്ടർ വേരിയബിളിൽ മാറ്റുവാൻ ശ്രമിക്കാം അതിൽ ഡോട്ട് ന്യൂമെറിക് ആയി ഞങ്ങൾക്ക് ലഭ്യമല്ല അല്ലെങ്കിൽ NA ഇതിനർത്ഥം ക്യാരക്ടർ വേരിയബിളിൽ നിന്ന് സംഖ്യാ വേരിയബിളുകളിലേക്കുള്ള ബലപ്രയോഗം സാധ്യമല്ല ഞങ്ങൾക്ക് R ന്റെ നിരവധി അടിസ്ഥാന വസ് തുക്കൾ ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ വെക്റ്ററുകൾ ലിസ്റ്റുകൾ ഡാറ്റ ഫ്രെയിമുകൾ ഒരേ ഡാറ്റാ തരങ്ങളുടെ ഓർഡർ ചെയ്ത ശേഖരമാണ് വെക്റ്റർ ലിസ്റ്റ് സ്വയം ഒബ്ജക്റ്റ് ശേഖരിക്കാൻ ഓർഡർ ചെയ്യുകയും ഡാറ്റാ ഫ്രെയിം ഒരു സാധാരണ ടാബുലാർ ഒബ്ജക്റ്റാണ് അത് വളരെ പ്രധാനപ്പെട്ടതും ആർ പ്രോഗ്രാമിംഗ് ഭാഷയുടെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ വസ്തുക്കളാണ് പ്രഭാഷണത്തിന്റെ വരാനിരിക്കുന്ന ഭാഗങ്ങളിലും മറ്റ് പ്രഭാഷണങ്ങളിലും ഇവ ഓരോന്നും ഞങ്ങൾ വിശദമായി കാണും നമുക്ക് ഇപ്പോൾ ആദ്യം നോക്കാം എന്താണ് വെക്റ്റർ തന്നിരിക്കുന്ന നീളത്തിന്റെ അടിസ്ഥാന ഡാറ്റ തരങ്ങളുടെ ഓർഡർ ചെയ്ത ശേഖരമാണ് വെക്റ്റർ അതിനാൽ ഇവിടെ പ്രധാന കാര്യം മാത്രമാണ് വെക്റ്ററിന്റെ എല്ലാ ഘടകങ്ങളും ഒരേ ഡാറ്റ തരത്തിലായിരിക്കണം നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണണമെങ്കിൽ R ൽ വെക്റ്റർ സൃഷ്ടിക്കുന്ന രീതി c എന്ന കൺകാറ്റെനേഷൻ കമാൻഡ് ഉപയോഗിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ നാല് സംഖ്യാ വേരിയബിളുകൾ അടങ്ങിയ ഒരു വെക്റ്റർ നിർവചിക്കാൻ പോകുന്നു ഞാൻ അത് ഒരു വേരിയബിൾ എക് സിലേക്ക് നിയോഗിക്കുന്നു ഇതാണ് ഇവിടെ കോഡ് X ഈ നമ്പറുകളുടെ സംയോജനം തുടർന്ന് ഞാൻ X അച്ചടിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ കോഡ് നടപ്പിലാക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കൺസോളിലെ output ട്ട് പുട്ട് നോക്കുന്നു ഇത് 2 3 4 7 8 9 എന്നീ വേരിയബിളുകളുള്ള ഒരു വെക്റ്റർ എക്സ് സൃഷ്ടിക്കുകയും അവ കൺസോളിൽ അച്ചടിക്കുകയും ചെയ്യുന്നു അടുത്തതായി ഞങ്ങൾ ലിസ്റ്റ് യിലേക്ക് നീങ്ങുന്നു ഓർഡർ ചെയ്ത ഒബ്ജക്റ്റുകൾ ശേഖരിക്കുന്ന ഒരു പൊതു വസ് തുവാണ് ലിസ്റ്റ് വെക്റ്ററുകളുടെ ലിസ്റ്റ് മെട്രിക്സുകളുടെ ലിസ്റ്റ് പ്രതീകങ്ങളുടെ ലിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് തുടങ്ങിയവ ലിസ്റ്റ് ആകാം ഒരു ലിസ്റ്റ് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നതിന് ഞങ്ങൾ ഇവിടെ ഒരു മാതൃക എടുക്കുന്നു ജീവനക്കാരുടെ ഒരു ലിസ്റ്റ് നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതിനുള്ള വിശദാംശങ്ങൾ ഐഡി ജീവനക്കാരുടെ പേര് ജീവനക്കാരുടെ എണ്ണം തുടങ്ങിയ ആട്രിബ്യൂട്ടുകൾ എനിക്ക് വേണം അതിനാൽ ആ ആട്രിബ്യൂട്ടുകൾക്കായി ഞാൻ ഓരോ വെക്റ്ററും സൃഷ്ടിക്കുന്നു ആദ്യത്തെ ആട്രിബ്യൂട്ടുകൾ ഇവിടെ കമാൻഡ് ഉപയോഗിച്ച് സൃഷ്ടിച്ചിരിക്കുന്ന ജീവനക്കാരുടെ ഐഡികൾ അടങ്ങിയ ഒരു സംഖ്യാ വേരിയബിളാണ് ഇത് ഒരു സംഖ്യാ വെക്റ്ററാണ് രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ജീവനക്കാരുടെ പേരാണ് ഇത് ഇവിടെ ഈ കോഡ് ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്നു പ്രതീക വെക്റ്ററും മൂന്നാമത്തെ ആട്രിബ്യൂട്ടും ഒരൊറ്റ സംഖ്യാ വേരിയബിളായ ജീവനക്കാരുടെ എണ്ണമാണ് ഇപ്പോൾ ഈ മൂന്ന് വ്യത്യസ്ത ഡാറ്റാ തരങ്ങളെല്ലാം ഒരു ലിസ്റ്റ് കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ജീവനക്കാരുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റിലേക്ക് എനിക്ക് സംയോജിപ്പിക്കാൻ കഴിയും അതിനാൽ ഇവിടെ ഈ കമാൻഡ് എം ഡോട്ട് ലിസ്റ്റ് വേരിയബിൾ സൃഷ്ടിക്കുന്നു ഇത് ഐഡിയുടെ ലിസ്റ്റ് എംപ് ഡോട്ട് നാമം മുകളിൽ നിർവചിച്ചിരിക്കുന്ന സംഖ്യ ഡോട്ട് ജീവനക്കാർ എന്നിവയാണ് ഇപ്പോൾ ഈ മൂന്ന് വ്യത്യസ്ത ഡാറ്റാ തരങ്ങളെല്ലാം ഒരു ലിസ്റ്റ് കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ജീവനക്കാരുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റിലേക്ക് എനിക്ക് സംയോജിപ്പിക്കാൻ കഴിയും അതിനാൽ ഇവിടെ ഈ കമാൻഡ് എം ഡോട്ട് ലിസ്റ്റ് വേരിയബിൾ സൃഷ്ടിക്കുന്നു ഇത് ഐഡിയുടെ ലിസ്റ്റ് എംപ് ഡോട്ട് നാമം മുകളിൽ നിർവചിച്ചിരിക്കുന്ന സംഖ്യ ഡോട്ട് ജീവനക്കാർ എന്നിവയാണ് നിങ്ങൾ ഒരു ലിസ്റ്റ് സൃഷ്ടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് പ്രിന്റുചെയ്യാനും ഔട്ട്ട്പുട്ട് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് കാണാനും കഴിയും അതിനാൽ നിങ്ങൾ ഈ കോഴ് സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലിസ്റ്റ് അച്ചടിച്ചിരിക്കുന്ന കൺസോളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് 1 2 3 4 ആദ്യ ഐഡികളാണ് ജീവനക്കാരുടെ പേരുകളും ലിസ്റ്റ് യുടെ മൂന്നാമത്തെ ഘടകവും ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് യുടെ രണ്ടാമത്തെ ഘടകമാണിത് എത്ര എണ്ണം ജീവനക്കാർ ലഭ്യമാണെന്ന് പറയുന്നു അതിനാൽ ഞങ്ങൾ ഒരു ലിസ്റ്റ് സൃഷ്ടിച്ചു ഇപ്പോൾ ലിസ്റ്റ് യുടെ ഘടകങ്ങൾ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ലിസ്റ്റിന്റെ എല്ലാ ഘടകങ്ങൾക്കും പേര് നൽകാം കൂടാതെ ലിസ്റ്റ് ഘടകം ആക് സസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആ പേരുകൾ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഞങ്ങൾ സൃഷ്ടിച്ച അതേ ലിസ്റ്റ് യാണിത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതേ ഐഡി എംപ് ഡോട്ട് നാമവും എംപ് ഡോട്ട് ജീവനക്കാരനും ഒരു ലിസ്റ്റ് നേരിട്ട് സൃഷ്ടിക്കുന്നതിനുപകരം ഐഡി ജീവനക്കാരുടെ പേരുകൾ ഇവിടെ കോഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ മൊത്തം സ്റ്റാഫ് എന്നീ നിലകളിൽ നിങ്ങൾക്ക് ഈ ആട്രിബ്യൂട്ടുകളുടെ പേരുകൾ നൽകാനും കഴിയും നിങ്ങൾ ഈ കോഡ് നടപ്പിലാക്കിയുകഴിഞ്ഞാൽ ആ ലിസ്റ്റ് സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും കൂടാതെ ലിസ്റ്റ് യുടെ ഈ ഘടകം ആക് സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡോളർ കമാൻഡ് m ഡോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും ലിസ്റ്റ് ലിസ്റ്റ് യാണ് പേര് പേരുകൾ എന്നിവ ഉപയോഗിച്ച് ഘടകം ആക്സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ കമാൻഡ് ഉപയോഗിക്കുകയും ഫലം അച്ചടിക്കുകയും ചെയ്യുമ്പോൾ അച്ചടിച്ച ജീവനക്കാരുടെ പേരുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഡിസ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് യുടെ ഘടകങ്ങളും ആക്സസ് ചെയ്യാൻ കഴിയും ഒരു ലിസ്റ്റിന്റെ മുകളിലെ ലെവൽ ഘടകങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് നിങ്ങൾ രണ്ട് ചതുര ബ്രാക്കറ്റുകളായ ഇരട്ട സ്ലൈസിംഗ് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടതുണ്ട് കൂടാതെ ഒരു ലിസ്റ്റ് യുടെ താഴ്ന്ന അല്ലെങ്കിൽ ആന്തരിക ലെവൽ ഘടകങ്ങൾ ആക് സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരട്ട സ്ലൈസിംഗ് ഓപ്പറേറ്ററിനൊപ്പം നിങ്ങൾ മറ്റൊരു ചതുര ബ്രാക്കറ്റ് ഉപയോഗിക്കണം ഉയർന്ന തലത്തിലുള്ള ഘടകങ്ങൾ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് ഇവിടെയുള്ള കോഴ് സ് വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് ഐഡികൾ ആക് സസ് വേണം എനിക്ക് പ്രിന്റ് എംപ് ഡോട്ട് ലിസ്റ്റ് ഉപയോഗിക്കാം ഇത് ഇരട്ട സ്ലൈസിംഗ് ഓപ്പറേറ്ററാണ് ഇത് എനിക്ക് ആദ്യ ലെവൽ ഐഡി നൽകും രണ്ടാമത്തെ ഘടകം സമാനമായി ആക്സസ് ചെയ്യാനും കഴിയും അതാണ് ഫലം ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആക്സസ് വേണമെങ്കിൽ ഉദാഹരണത്തിന് ആദ്യ ഉപ ഘടകം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഘടക ഐഡിയുടെ ആന്തരിക ഘടകം ഇരട്ട സ്ലൈസിംഗ് ഓപ്പറേറ്ററും മറ്റൊരു ചതുര ബ്രാക്കറ്റിലെ ആദ്യ ഘടകവും ലിസ്റ്റ് പ്പെടുത്തുന്നു അതുപോലെ ഇരട്ട സ്ലൈസിംഗ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആദ്യത്തെ ജീവനക്കാരുടെ പേര് ആക്സസ് ചെയ്യാൻ കഴിയും തുടർന്ന് ജീവനക്കാരുടെ ലിസ്റ്റ് യിൽ നിന്ന് മൂല്യക്കാരനെ പ്രിന്റുചെയ്യുന്ന ഘടകം ഘടകങ്ങളിലെ ആക്സസ് വഴിയും അവ മാറ്റിസ്ഥാപിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ആവശ്യമുള്ളവ ഉപയോഗിച്ച് ഒരു ലിസ്റ്റ് പരിഷ് ക്കരിക്കാനും കഴിയും ഉദാഹരണത്തിന് മൊത്തം സ്റ്റാഫുകളുടെ എണ്ണം 5 ആയി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൊത്തം സ്റ്റാഫുകൾക്ക് 5 മൂല്യം നൽകി അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും കൂടാതെ ജീവനക്കാരന്റെ ലിസ്റ്റ് യുടെ ഘടകം ലിസ്റ്റ് യിൽ ഒരു പുതിയ ജീവനക്കാരുടെ പേര് ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പേരുകൾ 2 ആണ് ഈ പുതിയ പേര് നിർ ആ ഉപ ഘടകത്തിലേക്ക് ഒരു പുതിയ ജീവനക്കാരനായി ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ലിസ്റ്റിന്റെ രണ്ടാമത്തെ ഘടകത്തിനും അഞ്ചാമത്തെ ഉപ ഘടകത്തിനും എനിക്ക് ഈ പ്രതീക വേരിയബിൾ നിറിനെ നേരിട്ട് നിയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾ ജീവനക്കാരുടെ ഐഡി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ ജീവനക്കാരനും പുതിയ ഐഡിയും നൽകണം അത് 5 ആണ് ഞങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഈ കമാൻഡിൽ നിങ്ങൾ ലെവൽ ഒരു ഘടകത്തിന്റെ അഞ്ചാമത്തെ ഉപ ഘടകം ആക്സസ് ചെയ്യുകയും തുടർന്ന് 5 ന്റെ ഡാറ്റ മൂല്യം നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ലിസ്റ്റ് അച്ചടിച്ചുകഴിഞ്ഞാൽ ഐഡികൾ ജീവനക്കാരുടെ എണ്ണം 5 ഉം മൊത്തം സ്റ്റാഫിന് 5 ഉം നിരാവ് എന്ന പേര് ലിസ്റ്റ് യിൽ ചേർക്കുന്നതുമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തതായി ലിസ്റ്റ് എങ്ങനെ കൂട്ടിച്ചേർക്കാമെന്ന് ഞങ്ങൾ കാണും കൺകാറ്റെനേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് രണ്ട് ലിസ്റ്റുകൾ സംയോജിപ്പിക്കാം അതിനുള്ള വാക്യഘടന ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്നിവയുടെ സംയോജനമാണ് ഞങ്ങൾക്ക് ഇതിനകം മൂന്ന് ആട്രിബ്യൂട്ടുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് ജീവനക്കാരുടെ ഡോട്ട് യുഗമായ മറ്റൊരു ആട്രിബ്യൂട്ട് ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ അഞ്ച് ജീവനക്കാരുടെ പ്രായം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ലിസ്റ്റ് സൃഷ്ടിക്കുന്നു ഇപ്പോൾ എം ഡോട്ട് ലിസ്റ്റായ യഥാർത്ഥ ലിസ്റ്റുമായി എം ഡോട്ട് യുഗങ്ങളായ ഈ പുതിയ ലിസ്റ്റ് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ രണ്ട് ലിസ്റ്റുകളും സമന്വയിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഈ കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ യഥാർത്ഥ ലിസ്റ്റ് തുടർന്ന് പുതിയ ലിസ്റ്റ് എന്നിവ ഉപയോഗിക്കണം അതിനാൽ ഈ കമാൻഡ് ഈ രണ്ട് ലിസ്റ്റുകളെയും യോജിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഇത് ജീവനക്കാരുടെ ഡോട്ട് ലിസ്റ്റ് യിൽ ഏൽപ്പിക്കുന്നു ഈ പുതിയ ജീവനക്കാരുടെ ഡോട്ട് ലിസ്റ്റ് അച്ചടിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥ ലിസ്റ്റ് യിലേക്ക് മറ്റൊരു ആട്രിബ്യൂട്ട് യുഗങ്ങൾ ചേർത്തതായി നിങ്ങൾ കാണും ചുരുക്കത്തിൽ ആർ ആർ വെക്റ്ററുകളുടെ രണ്ട് ഒബ് ജക്റ്റുകളെ പിന്തുണയ് ക്കുന്ന ഡാറ്റാ തരങ്ങൾ ഞങ്ങൾ വിശദമായി കണ്ടു അടുത്ത പ്രഭാഷണത്തിൽ ഡാറ്റ ഫ്രെയിമുകളായ ആർ യുടെ പ്രധാന ഡാറ്റ ഒബ് ജക്റ്റ് ഞങ്ങൾ നോക്കാൻ പോകുന്നു